അടുത്തതായി നമ്മൾ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ആരംഭിക്കുന്നു ഇത് ആറാം അധ്യായം ആണ് ഇവിടെ നമ്മൾ ഡിസി ട്രാൻസിയെന്റ പ്രത്യേകിച്ചും ആർഎൽ സർക്യൂട്ട് ആർസി സർക്യൂട്ട് എന്നിവയും എന്തുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് എന്നു വിളിക്കുന്നത് എന്നും കാണും ഈ വിഷയം അവസാനിക്കുമ്പോൾ എസി സർക്യൂട്ടിലേക്ക് നമ്മൾ പോകും അതിനാൽ ആദ്യ൦ സിംഗിൾ ഫേസ് തുടർന്ന് 3 ഫേസ് അങ്ങനെ പോകാം അതിനാൽ ചില ആമുഖം ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പത്തെ അധ്യായങ്ങളിൽ 3 നിഷ്ക്രിയ ഘടകങ്ങൾ റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകളെയും ഇൻഡക്ടറുകളെയും വ്യക്തിഗതമായി പരിഗണിച്ചിട്ടുണ്ട് ഈ അധ്യായത്തിൽ 2 തരം സർക്യൂട്ട് പരിശോധിക്കും ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും അടങ്ങുന്ന ഒരു സർക്യൂട്ട് ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും അടങ്ങുന്ന ഒരു സർക്യൂട്ട് നമ്മൾ 2 തരം സർക്യൂട്ടുകൾ കാണും ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും അടങ്ങുന്ന ഒരു സർക്യൂട്ടും കൂടാതെ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും അടങ്ങുന്ന ഒരു സർക്യൂട്ട് കാണും ഇവയെ യഥാക്രമം ആർസി സർക്യൂട്ട് ആർഎൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു നമ്മൾ ആർസി ആർഎൽ സർക്യൂട്ട് കെസിഎൽ കെവിഎൽ എന്നിവ ഉപയോഗിച്ച് വിശകലനം നടത്തുകയും വ്യത്യസ്ത സമവാക്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യു൦ അവ എല്ലാ സമവാക്യങ്ങളേക്കാളും പരിഹരിക്കാൻ പ്രയാസമാണ് അതിനാൽ ആർസി ആർഎൽ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിന്റെ ഫലമായുണ്ടാകുന്ന ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ അതായത് ആർസി ആർഎൽ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിന്റെ ഫലമായുണ്ടാകുന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഫസ്റ്റ് ഓർഡർ ഇൽ ആണ് ഉള്ളത് അതിനാൽ ഇത് അടിവരയിട്ടതാണ് ഇത്തരം സർക്യൂട്ടുകളെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നു ആദ്യ ഓർഡർ സർക്യൂട്ടിന്റെ ക്യാരക്ടറായിസ് ചെയ്യുന്നത് ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ഉപയോഗിച്ചാണ് അതിനാൽ സർക്യൂട്ടിനെ എക്സൈറ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് സർക്യൂട്ട് എക്സൈറ് ചെയ്യാനുള്ള ആദ്യ മാർഗം സംഭരണ ഘടകത്തിന്റെ പ്രാരംഭ അവസ്ഥയാണ് അത് സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആയിരിക്കും അതായത് സംഭരണ ഘടകങ്ങളുടെ പ്രാരംഭ വ്യവസ്ഥകളാൽ സർക്യൂട്ട് എക്സൈറ് ചെയ്യപ്പെടുന്നു ഈ സർക്യൂട്ടുകൾ സോഴ്സ് ഫ്രീ സർക്യൂട്ടാണ് അതിനാൽ ഊർജ്ജം ആ കപ്പാസിറ്ററിലോ തുടക്കത്തിൽ ഒരു ഇൻഡക്റ്റീവ് മൂലകത്തിലോ സംഭരിക്കപ്പെടുന്നുവെന്ന് കരുതുക അതിനാൽ ഈ സംഭരിച്ച ഊർജ്ജം സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുകയും ക്രമേണ റെസിസ്റ്ററിൽ ഡിസ്സിപ്പേട് ചെയ്യപ്പെടുന്നു അതിനാൽ സോഴ്സ് ഇല്ലാത്ത സർക്യൂട്ടുകൾ സ്വതന്ത്ര സോഴ്സ്കളിൽ നിന്ന് മുക്തമാണ് പക്ഷേ അവയ്ക്ക് ഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടായിരിക്കാം അതിനാൽ സ്വതന്ത്ര സ്രോതസ്സുകളൊന്നും ഉണ്ടാകില്ല പക്ഷേ അവയ്ക്ക് ആശ്രിത സോഴ്സ് ഉണ്ടായിരിക്കാം ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനെ എക്സൈറ് കൊള്ളിക്കുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം സ്വതന്ത്ര സോഴ്സ്കളാണ് അതിനാൽ ഈ അധ്യായത്തിലോ ഈ വിഷയത്തിലോ dc സ്വതന്ത്ര സോഴ്സ്കളാണ് പരിഗണിക്കുന്നത് ആദ്യം സോഴ്സ് ഫ്രീ സർക്യൂട്ട് കാണും അതിനാൽ ഒരു ആർസി സർക്യൂട്ടിന്റെ dc ഉറവിടം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഒരു ഉറവിട രഹിത RC സർക്യൂട്ട് സംഭവിക്കുന്നു ശരിയല്ലേ അതിനാൽ കപ്പാസിറ്ററിൽ ഇതിനകം സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ക്രമേണ റെസിസ്റ്ററിൽ ടിസ്സിപ്പെറ്റ് ചെയ്യുന്നു അതിനർത്ഥം ചിത്രം 1 ഇത് ഒരു റെസിസ്റ്ററിന്റെയും തുടക്കത്തിൽ ചാർജ്ജ് ചെയ്ത കപ്പാസിറ്ററിന്റെയും സീരീസ് കോമ്പിനേഷൻ കാണിക്കുന്നുവെന്ന് കരുതുക സർക്യൂട്ട് പ്രതികരണം പരിശോധിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടുകയും റെസിസ്റ്റർ ഉണ്ട് iC iR എന്നിവയൊക്കെയാണെങ്കിലും ഇത് ഒരു ലളിതമായ സർക്യൂട്ടാണ് എന്നാൽ ഈ സമയത്ത് KCL പ്രയോഗിക്കുകയാണെങ്കിൽ iC ഈ വഴിക്ക് പോകുന്നുവെന്നും iR ഈ വഴിയാണ് പോകുന്നതെന്നും നമ്മൾ കരുതുന്നു അതിനാൽ iC iR 0 ത്തിനു തുല്യമാണ് ഇതിനകം ഒരേ സർക്യൂട്ട് ആണ് എന്നാൽ ചില വിശകലനത്തിന് അത് ചെയ്യും ഈ ഭാഗം വോൾട്ടേജാണ് അല്ലേ ഇതാണ് വോൾട്ടേജ് v എന്നത് കപ്പാസിറ്ററായ അല്ലെങ്കിൽ റെസിസ്റ്ററിലുടനീളം ഉണ്ടായിരുന്ന വോൾട്ടേജാണ് ഇത് സമാനമാണ് ശരിയല്ലേ അതിനാൽ ഇത് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ടാണ് സർക്യൂട്ടിൽ സ്വതന്ത്ര സ്രോതസ്സുകളൊന്നുമില്ല ഈ കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെട്ടുവെന്ന് കരുതുക നിങ്ങൾ ഈ സമയത്ത് കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് iC iR 0 ആയിരിക്കും അതിനാൽ ഇത് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആണ് കപ്പാസിറ്ററിന് തുടക്കത്തിൽ ചാർജ്ജ് ആയതിനാൽ കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് vt ആണെന്ന് കരുതുക സമയം t 0 പ്രാരംഭ വോൾട്ടേജ് v0 v0 എന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ t 0 എന്ന് കരുതുക അത് v0 എന്നത് V സഫിക്സ് 0 ആണ് അതായത് പ്രാരംഭ വോൾട്ടേജ് ഇപ്പോൾ കപ്പാസിറ്ററിൽ തുടക്കത്തിൽ സംഭരിച്ച ഊർജ്ജം Wc0 1 2 C V02 അല്ലേ അതിനാൽ ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഈ Wc0 1 2 C V0 2 ആണ് അതിനാൽ വലത് നോഡിൽ KCL പ്രയോഗിക്കുമ്പോൾ iC iR 0 എന്ന് കിട്ടുന്നു അതിനാൽ നിർവചനം അനുസരിച്ച് iC C dv dt അതേ സമയം iR v R നിങ്ങൾ ഈ സർക്യൂട്ടിൽ വന്നാൽ ഈ വോൾട്ടേജ് V അതിനാൽ iR v R ശരിയല്ലേ കാരണം ഒരു റെസിസ്റ്ററിലുടനീളവും കപ്പാസിറ്റരിലും ഒരേ വോൾട്ടേജ് ആണ് അതിനാൽ v iRR അതിനാൽ iR v R സമാനമായി ഇവിടെയും iC C dv dt ഈ കപ്പാസിറ്ററിലും റെസിസ്റ്ററിലും ഉടനീളം ഈ v സമാനമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് C dv dt v R 0 കാരണം iR v R 0 അല്ലെങ്കിൽ dv dt v RC 0 അതിനാൽ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് v യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇത് സമവാക്യം 4 dv v 1 RC dt എന്ന് എഴുതാം അതിനാൽ ഈ സമവാക്യം dv v 1 RC dt എന്ന് എഴുതാൻ കഴിയും ഇത് സമവാക്യം 5 ഇരുവശവും ചെയ്താൽ ഈ വശത്ത് ln v നാച്ചുറൽ ലോഗ് ലഭിക്കും t RC ഒരു സ്ഥിരമായ ln a ക്കു തുല്യമാണ് എന്ന് എഴുതാം ഇവിടെ കോൺസ്റ്റന്റ് നു C1 C2 നു പകരം ln a എടുത്തിട്ടുണ്ട് ലളിതമായി കണക്കുവാൻ വേണ്ടി ആണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് സമവാക്യം 6 ആണ് ഇപ്പോൾ ln A എന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്integration constant ആണ് ഇതിനെ ഈ വശത്തേക്ക് കൊണ്ടുവരിക ഇടത് വശത്ത് ln V ln A t RC അതിനെ വീണ്ടും ln V A t RC എന്ന് എഴുതാം ഇത് സമവാക്യം 7 ആണ് അതിനാൽe യുടെ പവറിൽ എഴുതുമ്പോൾ vt A e t RC യഥാർത്ഥത്തിൽ അത് ഇവിടെ ln എന്നാൽ e യുടെ അടിസ്ഥാനമാക്കിയുള്ള ലോഗ് എന്നാണ് അതിനാൽ v A e t RC അല്ലെങ്കിൽ v A e t RC v എന്നത് t യുടെ ഒരു ഫംഗ്ഷനാണ് അതിനാലാണ് ഞാൻ Vt എന്ന് എഴുതുന്നത് ഇപ്പോൾ പക്ഷേ പ്രാരംഭ അവസ്ഥയിൽ സമയം t 0 vt v0 V സഫിക്സ് 0 ആണ് അതിനാൽ t 0 എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഭാഗം 1 ആയിത്തീരുകയും അത് A0 ന് തുല്യമാവുകയും ചെയ്യും അതിനാൽ A V0 ശരിയല്ലേ ഇത് സമവാക്യം 9 ആണ് Vt V0 e t RC ഇത് 10 എന്ന സമവാക്യമാണ് ആർസി സർക്യൂട്ട് ന്റെ വോൾട്ടേജ് പ്രതികരണം പ്രാരംഭ വോൾട്ടേജിന്റെ എക്സ്പോണൻഷ്യൽ ഡിക്കയാണെന് സമവാക്യം 10 കാണിക്കുന്നു ഇതിനെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു കാരണം ഇതിന് e tRC നൽകിയിരിക്കുന്നു അതിനാൽ സ്വാഭാവികമായും ഇത് പ്രാരംഭ പ്രതികരണത്തിന്റെ എക്സ്പോണൻഷ്യൽ ഡിക്കയാണ് ഇതിനെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു കാരണം ഈ പ്രതികരണം സംഭരിച്ചിരിക്കുന്നത് സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജവും സർക്യൂട്ടിന്റെ ഭൌതിക സ്വഭാവവു൦ മൂലമാണ് ബാഹ്യ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഉറവിടം മൂലമല്ല ഇതിനർത്ഥം ഇതിനെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു കാരണം പ്രതികരണം സംഭരിക്കപ്പെടുന്ന പ്രാരംഭ ഊർജ്ജവും സർക്യൂട്ടിന്റെ ഭൌതിക സ്വഭാവവു൦ കൊണ്ടാണ് ചില ബാഹ്യ വോൾട്ടേജ് മൂലമല്ല കാരണം ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ഉണ്ട് അതിനാൽ ഇതിനെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ V Vo e t τ പ്ലോട്ട് ചെയ്യുക ആണെങ്കിൽ അതായത് V V0 e t RC τ RC എടുക്കുകയാണെങ്കിൽ V V0 e t RC τ RC τ യഥാർത്ഥത്തിൽ ടൈം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു അതിനാൽ അതിനാലാണ് ഈ പ്ലോട്ട് V V0 e t RC അതിനാൽ ഇത് ആർസി സർക്യൂട്ടിന്റെ വോൾട്ടേജ് പ്രതികരണമാണ് t τ ആയിരിക്കുമ്പോൾ V V0 e τ τ ആയിരിക്കും അത് V0 e 1 അതായ്ത 0 368 V0 ആയി മാറും അത് ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ t τ ആയിരിക്കുമ്പോൾ അത് 0 368 V0 ആണ് ഇപ്പോൾ നിങ്ങൾ ചില വിശദീകരണത്തിലേക്ക് വരും അതിനാൽ ഇത് ചിത്രം 2 ആണെന്ന് കണക്കാക്കുക ചിത്രം 2 സ്വാഭാവിക പ്രതികരണം കാണിക്കുന്നു T 0 ൽ നമുക്ക് ശരിയായ പ്രാരംഭ അവസ്ഥ V V0 0 ആണ് സമയം കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് 0 ലേക്ക് കുറയുന്നു വോൾട്ടേജ് കുറയുന്ന വേഗത τ RC എന്ന് സൂചിപ്പിക്കുന്ന ടൈം കോൺസ്റ്റന്റ് അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നു ഇത് ആ സർക്യൂട്ടിന്റെ സമയ സ്ഥിരതയാണ് അതിനാൽ സമവാക്യം 10 ശക്തിയെ Vt V0 e t τ എന്ന് എഴുതാം അതിനാൽ t τ ആയിരിക്കുമ്പോൾ vτ v0 e 1 0 368 v0 13 എന്ന സമവാക്യ൦ ഒരു സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് നിർവചിക്കാൻ ഉപയോഗിക്കാം പ്രതികരണത്തിന് അതിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ 36 8 ശതമാനം ഡെക്കായ് ചെയ്യാൻ ആവശ്യമായ സമയമാണെന്ന് പറയാൻ കഴിയും ഇത് 0 368 അതായത് പ്രാരംഭ മൂല്യത്തിന്റെ v0 യുടെ 36 8 ശതമാനം സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് അതിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ 36 8 ശതമാനം ക്ഷയിക്കാനുള്ള പ്രതികരണത്തിന് ആവശ്യമായ സമയമാണെന്ന് നമുക്ക് പ്രസ്താവിക്കാം ഇപ്പോൾ ഞാൻ ഒരു പട്ടിക ഉണ്ടാക്കി പട്ടിക 1 ൽ നിന്ന് vtv0 ന്റെ മൂല്യം കൊടുക്കുന്നു പട്ടിക 1 കാണിക്കുന്നു T 5τ ന് ശേഷം വോൾട്ടേജ് vt v0ന്റെ 1 ശതമാനത്തിൽ കുറവാണെന്ന് കാണാം ഇത് vtv0 e tτ t τ ആയിരിക്കുമ്പോൾ 0 3678 2 τ ആയിരിക്കുമ്പോൾ 0 1353 5 τ ഇത് 0 0067 അപ്പോൾ ഒരു ശതമാനത്തിൽ കുറവാണ് അതിനാൽ t 5 τ ആയിരിക്കുമ്പോൾ അത് 1 ശതമാനത്തിൽ താഴെയാണ് അതിനാൽ 5 ടൈം കോൺസ്റ്റന്റ് നു ശേഷം കപ്പാസിറ്റർ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുവെന്ന് അല്ലെങ്കിൽ 5 τ ശേഷം മറ്റൊരു വിധത്തിൽ പൂർണ്ണമായി ചാർജ്ജ് ചെയ്യപ്പെടും എന്ന് അനുമാനികാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തപ്പോൾ സർക്യൂട്ട് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഇത് എത്താൻ t 5 τ എടുക്കും അതായത് ഗ്രാഫ് 2 τ 3τ മുതൽ 5 τ വരെ പോയാൽ ഈ ഗ്രാഫിന് 5 τ ക്കു ശേഷം ഏതാണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇത് ഏതാണ്ട് സ്ഥിരമായ അവസ്ഥയാണ് അതിനാൽ ഈ പട്ടിക ശരിയാണെന്ന് ഈ സ്ഥിരത കാണിക്കുന്നു ടൈം കോൺസ്റ്റന്റ് മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് കണ്ടേക്കാം സമവാക്യം 12 ലെ vt യുടെ ഡെറിവേറ്റീവ് T 0 എന്ന സമയത്തു വിലയിരുത്തുന്നു ഇത് 12 എന്ന സമവാക്യത്തിൽ vt v0 e tτ ലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക v v0 എടുത്ത് e t τ അതിനാൽ v v0 ന്റെ d dt t 0 ൽ എടുക്കുന്നു അത് 1 τ e t τ ആയി മാറുന്നു t 0 ഇത് വലതുവശത്ത് 1 τ ആയി മാറുന്നു അതിനാൽ ഇത് സമവാക്യം 14 ആണ് ഇപ്പോൾ 14 എന്ന സമവാക്യത്തിൽ നിന്ന് ടൈം കോൺസ്റ്റന്റ് എന്നത് ഡിക്കയുടെ പ്രാരംഭ നിരക്കാണെന്നോ അല്ലെങ്കിൽ ഡിക്കൈ നിരക്ക് സ്ഥിരമായി എടുത്താൽ vv0 ഒന്നിൽ നിന്നും 0 ആയി ക്ഷയിക്കാൻ എടുത്ത സമയമാണെന്നും പറയാൻ കഴിയും t 0 ലെ ഈ പ്രാരംഭ ചരിവിനെ ഒരു ഓസിലോസ്കോപ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രതികരണ വക്രത്തിൽ നിന്ന് ഗ്രാഫിക്കലായി ടൈം കൊൻസ്ടന്റ് നിർണ്ണയിക്കാൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നു രേസ്പോൻസ് കർവ് ഇത് നിന്നും τ കാർവിലേക്ക് t 0 എന്ന വക്രത്തിലേക്ക് ടാൻജെന്റ് വരയ്ക്കുക ആ ടാൻജെന്റ് t τ എന്ന സമയ അച്ചുതണ്ട് കണ്ടുമുട്ടുന്നു അതിനർത്ഥം t 0 t 0 ന് നിങ്ങൾ ഒരു ടാൻജെന്റ് വരച്ചാൽ അത് ഇവിടെ τ ഇൽ സന്ദർശിക്കും ഈ ടാൻജെന്റ് t 0 ആണ് എവിടെ നിന്നു ടാൻജെന്റ് വരചാലും അത് τ ൽ സന്ദർശിക്കും ഇത് ടൈം കൊൻസ്ടനെറ്റിനെ പ്രതികരണ കാർവിൽ നിന്നും ഉള്ള നിർണ്ണയമാണ് ഈ വഴി ലബോറട്ടറിയിൽ ടൈം കൊൻസ്ടന്റ് കണ്ടെത്താനും കഴിയും അവിടെ നിന്ന് ഏത് ഗ്രാഫു ലഭിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും തുടർന്ന് 2 τ 3τ5 τ വരെ കാണിക്കുന്നു നിങ്ങൾ സമവാക്യം 11 ൽ വന്നാൽ കാണാൻ കഴിയും അത് τ RC ആണ് സമവാക്യം 11 ൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയും ചെറിയ ടൈം കൊൻസ്ടന്റ് വേഗത്തിൽ പ്രതികരണം നൽകുന്നു എന്ന് ചിത്രം 4 ൽ കാണിച്ചിരിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് τ 2 ഇൽ പ്രതികരണം മന്ദഗതിയിലാണെങ്കിൽ τ 1 ഇൽ τ 2 നേക്കാൾ വളരെ വേഗതയിൽ രേസ്പോൻസ് ഉണ്ട് τ കൂടുതൽ കുറയുകയാണെങ്കിൽ പ്രതികരണം വേഗത്തിൽ ആകും അതിനാൽ ഈ vv0 e t τ അനുപാതം y അക്ഷത്തിൽ എടുക്കുന്നു ടൈം കൊൻസ്ടനെറ്റിനെ വിവിധ മൂല്യങ്ങൾക്കുള്ള പ്രതികരണ കാർവാണിത് ടൈം കൊൻസ്ടനെറ്റിനെ ചെറുതോ വലുതോ ആണെങ്കിലും സർക്യൂട്ട് t 5 τ എന്ന നിലയിൽ സ്റ്റഡി അവസ്ഥയിലെത്തുന്നു കാരണം ഇത് എടുത്തതിന്റെ അനുപാതത്തിന്റെ 1 ശതമാനത്തിൽ കുറവാണ് അതിനാൽ സർക്യൂട്ട് t 5 τ ൽ സ്ഥിരമായ അവസ്ഥയിലെത്തുന്നു കറന്റ് iR vt R ആയി പ്രകടിപ്പിക്കാം സർക്യൂട്ടിൽ സമാനമായത് കണ്ടു അതിനാൽ ഇത് v0R e t τ ആയിരിക്കും ഇതാണ് കറന്റ്iR റെസിസ്റ്ററിൽ വ്യാപിക്കുന്ന വൈദ്യുതി vt vt iR ആണ് അതിനാൽ നമ്മൾ vt v0 e t τ iR സമവാക്യം 15 ലെതു എന്നിവ ഇട്ടാൽ ഈ എക്സ്പ്രഷൻ v0 2 R e 2 t τ ലഭിക്കും ഇത് സമവാക്യം 16 ആണ് t സമയം വരെ റെസിസ്റ്റർ ആഗിരണം ചെയ്യുന്ന ഊർജ്ജം അത് WRt 0 മുതൽ t p dt p t യുടെ ഒരു ഫംഗ്ഷൻ ആണ് 0 മുതൽ t വരെ ഇത് v സമവാക്യം 16 അനുസരിച്v0 2R e 2 t τ dt ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ1 2 C v0 2 1 e 2 t τ t ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഒമേഗ r ഇൻഫിനിറ്റി ½ C v0 2 അത് ഒമേഗ C 0 ആണ് കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം ഒടുവിൽ റെസിസ്റ്ററിൽ വ്യാപിക്കുന്നു t ഇൻഫിനിറ്റിയിലാണെങ്കിൽ അത് കേവലം 1 2 C v0 2 ആയി മാറുന്നു കാരണം ഈ പദം അവിടെ ഉണ്ടാകില്ല കൂടാതെ ഇത് തുടക്കത്തിൽ സംഭരിച്ച ഊർജ്ജം WC0 ആവുന്നു കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം ഒടുവിൽ റെസിസ്റ്ററിൽ വ്യാപിക്കുന്നു നമുക്ക് കുറച്ച് ഉദാഹരണം ചെയ്യാം ഈ ഉറവിട രഹിത RC സർക്യൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ വളരെ ലളിതമാണു ഇത് ഇവിടെ ഒരു ലളിതമായ സർക്യൂട്ട് എടുക്കുന്നു ഒരു സീരീസ് പാരലൽ സർക്യൂട്ട് അതിനാൽ 5 Ω റെസിസ്റ്റർ ഉണ്ട് 0 1 ഫറാഡ് ഉണ്ട് ഈ 5 Ω റെസിസ്റ്റരിൽ ഉള്ള വോൾട്ടേജ് Vc ആണ് ഇത് 55 ഉം 15 ഉം രണ്ടും സീരീസിലാണ് കൂടാതെ പ്രത്യേകമായി നൽകുകയും അതിലൂടെ ഉള്ള കറന്റ് ix 15 Ω റെസിസ്റ്ററിലുടനീളമുള്ള വോൾട്ടേജ് vx ആണ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ പ്രാരംഭ മൂല്യ0 നൽകിയിട്ടുണ്ട് അതായത് vc 0 10 വോൾട്ട് നൽകിയിരിക്കുന്നു ഇത് vc vx ix t 0 ആയിരിക്കുമ്പോൾ എത്ര എന്ന് കണ്ടെത്തണം ഇവ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ആദ്യം കപ്പാസിറ്റർ ടെർമിനലിലുടനീളം തുല്യമായ അല്ലെങ്കിൽ തെവെനിൻ പ്രതിരോധം നേടുക തെവെനിൻ പ്രതിരോധം ഈ 2 ടെർമിനലുകളിലുടനീളം കണ്ടെത്താൻ ശ്രമിച്ചാൽ എന്താണ് തെവെനിൻ പ്രതിരോധം 5 Ω 15 Ω അതിനാൽ 20Ω ഇവിടെ ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ഇൽ ആണ് ഉള്ളത് അതിനാൽ നമുക്ക് ഇത് നോക്കാം 20Ω ഈ രണ്ടും സമാന്തരമാണ് ഇത് 5 205 20 ആയിരിക്കും ഇത് 100254 Ω ആയിരിക്കും Req R Thevenin 4 Ω ഇത് കണ്ടെത്തിയാൽ 5 15 55 5 15 ആണ് 4 Ω ഇതാണ് ഇതിന്റെ ലളിതമായ കണക്കുക്കൂട്ടൽ തുല്യതാ സർക്യൂട്ട് ഈ കപ്പാസിറ്ററായിരിക്കും ഇത് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ടാണ് 1 ഫറാഡ് ഈ R ഇതാണ് Req 4 ഇത്തരത്തിലുള്ള കാര്യം ഓർക്കുക R Thevenin ആദ്യം R equivalent ആകണം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്നു നമുക്ക് നോക്കാം ഈ വോൾട്ടേജ് v ആണെന്നും അതായത് 0 1 ഫറാഡ് കപ്പാസിറ്ററിനു കുറുകെയും അത് R ന് കുറുകെയും അല്ലെങ്കിൽ Req ന് കുറുകെയും അത് v ആണ് ടൈം കോൺസ്റ്റന്റ് τ RC ഇത് ഇവിടെR eq C Req 4 C 0 1 0 4 സെക്കൻഡ് ആണ് V v0 e t τ എന്നാൽ v0 ന് 10 വോൾട്ട് നൽകുന്നു v0 v0 v c 0 10 വോൾട്ട് നൽകുകയും τ 0 4 സെക്കൻഡ് v c v 10 t 0 അതാണ് 10 e 2 5 t വോൾട്ട് മുമ്പ് വികസിപ്പിച്ച സൂത്രവാക്യങ്ങളിൽ നിന്നുള്ള ലളിതമായ കാര്യമാണിത് ചിത്രം 6 5 ൽ നിന്ന് vx ലഭിക്കാൻ വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിലേക്ക് വന്നാൽ ഈ വോൾട്ടേജ് v ആണെന്ന് ആദ്യം കരുതുക ഈ വോൾട്ടേജ് v ആണെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ ഇത് vx ആണെന്ന് കരുതുക അതിനാൽ വോൾട്ടേജ് ഡിവിഷൻ അനുസരിച്ച് 5 ഉം 15 സീരീസ് ശ്രേണിയിലാണ് ഇത് 1515 5 v ആയിരിക്കും അത് vx ആയിരിക്കും ഇതിലുടനീളം ഈ വോൾട്ടേജ് v ആണ് ഇത് 1515 5 ആയിരിക്കും ഇവിടെ 15 ആണ് ഇത് 5 ഈ വോൾട്ടേജ് ഈ വോൾട്ടേജ് v അതാണ് വോൾട്ടേജ് ഡിവിഷൻ ഇതാണ് ഇവിടെ ചെയ്തത് ഇത് vx 1515 5 v v 10 e 2 5 t v v c ലഭിച്ചു അതിനാൽ ഇത് 0 75 10 e 2 5 ഇത് 7 5 e 2 5 t വോൾട്ടും ix vx 15 ഉം ആണ് കാരണം 15 Ω പ്രതിരോധത്തിലുടനീളം വോൾട്ടേജ് vx ആണ് സ്വാഭാവികമായും നമുക്ക് ix vx 15 എടുക്കാം vx ലഭിച്ചു ix vx 15 ഇത് 7 5 e 2 5 t 15 0 5 e 2 5 t ആമ്പിയർ ആയിരിക്കും ഇത് ix ആണ് എല്ലാ ഉത്തരങ്ങളും ലഭിച്ചു ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് അടുത്ത ഉദാഹരണം സർക്യൂട്ടിലെ കപ്പാസിറ്റർ C 1 C 2 എന്നിവയിലെ പ്രാരംഭ വോൾട്ടേജ് ചിത്രം 7 ൽ കാണിച്ചിരിക്കുന്നു ഉറവിടങ്ങൾ കാണിച്ചിട്ടില്ല പക്ഷേ പ്രാരംഭ വ്യവസ്ഥകൾ കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്രശ്നത്തിന്റെ ഭാഷ സ്വിച്ച് t 0 ൽ അടച്ചിരിക്കുന്നു അതിനാൽ v1t മുതൽ v2 t വരെ നിർണ്ണയിക്കുക തുടർന്ന് vt it t 0 ൽ നിർണ്ണയിക്കുക അടുത്തതായി കപ്പാസിറ്ററുകളായ C 1 C 2 എന്നിവയിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം കണക്കാക്കുക അടുത്തതായി ടൈം ഇൻഫിനിറ്റിലേക്ക് നീങ്ങുമ്പോൾ കപ്പാസിറ്ററിൽ എത്ര ഊർജ്ജം സംഭരിച്ചു എന്ന് നിർണ്ണയിക്കുക കൂടാതെ 250 കിലോ റെസിസ്റ്ററിലേക്ക് വിതരണം ചെയ്യുന്ന ഊർജ്ജം b c എന്നിവയിൽ ലഭിച്ച ഫലം തമ്മിലുള്ള വ്യത്യാസമാണെന്ന് കാണിക്കുക ഇ 4 കാര്യങ്ങളാണ് കണക്കാക്കേണ്ടത് എന്നാൽ ആദ്യം സർക്യൂട്ട് നൽകിയിരിക്കുന്നതിൽ നിന്നും പൊളാരിറ്റി നോക്കുക ഇത് കപ്പാസിറ്റർ C 1 ആണ് ഇത് 5 മൈക്രോഫറാഡ് ആണ് ഇത് കപ്പാസിറ്റർ C 2 20 മൈക്രോഫറാഡാണ് ഇത് ആണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് v1 t v2 t V 1 t എന്നാൽ C1 ന് കുറുകെ V 2 t എന്നാൽ C 2 ന് കുറുകെ ഇത് 250 കിലോ Ω റെസിസ്റ്ററാണ് കൂടാതെ വോൾട്ടേജിലുടനീളം vt ആണ് കൂടാതെ അതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും it കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെട്ടുബോൾ സ്വിച്ച് തുറന്നും t 0 ഇൽ ഇപ്പോൾ സ്വിച്ച് അടഞ്ഞിരിക്കുന്നു അതിനാൽ ഇവിടെ ധ്രുവീയത നോക്കുക പക്ഷേ ഇവിടെ ഇതാ ഇവിടെ ഇതാണ് പ്രശ്നത്തിലെ തന്ത്രങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇതിന്റെ ധ്രുവീയത നൽകിയിട്ടുണ്ടെന്ന് കാണും ഇത് ഇതാണ് ഇത് വീണ്ടും ഇവിടെ പ്രാരംഭ വ്യവസ്ഥകൾ ശരിയാണെന്ന് എളുപ്പത്തിൽ ഓർക്കാൻ കഴിയും ഇപ്പോൾ ചോദ്യത്തിന് അനുസരിച്ചു പ്രാരംഭ വോൾട്ടേജ് 4 വോൾട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ ഇത് 24 വോൾട്ട് ആണ് എന്നാൽ ധ്രുവീയത നോക്കുക അതനുസരിച്ച് പ്രാരംഭ വോൾട്ടേജിന്റെ അടയാളം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഈ 2 കപ്പാസിറ്ററുകൾ സീരീസ് കോമ്പിനേഷനിൽ ആണ് 5 മൈക്രോഫറാഡും 20 മൈക്രോഫറാഡും സി 1 സി 2 എന്നിവ അതിനാൽ സമാന്തര റെസിസ്റ്റർ ചെയ്യുന്ന രീതിക്ക് തുല്യമാണിത് ഇവിടെ ഇത് Ce q 1 1 C1 1 C2 15 120 അതിന്റെ റേസിപ്രോക്കൽ 4 മൈക്രോഫറാഡായി മാറുന്നു അത് C എക്വിവാലെന്റണ് ഒപ്പം vC10 നൽകിയിട്ടുണ്ട് 4 വോൾട്ടും vC2 0 24 വോൾട്ടും അതിനാൽ ഇതാണ് പ്രാരംഭ വ്യവസ്ഥ v c eq vC20 vC1 0 അതായത് 20 വോൾട്ട് ആയിരിക്കും എനിക്ക് vc eq വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ഇത് ഇത് അത് v cq v C2 0 v C1 0 0 അതുകൊണ്ടാണ് v cq 0 20 v0 V0 v cq 0 20 വോൾട്ട കാരണം ഇത് അതിന്റെ എക്വിവാലെന്റ ഉറവിട ഫ്രീ ആർസി സർക്യൂട്ടാണ് ഇത് 4 മൈക്രോ ഫറാഡും ഇത് 2 50 കിലോ Ω ആണ് അതേ ഡ്രോയിംഗിൽ ഇത് vt ആണ് ഇത് തുല്യമായ സർക്യൂട്ട് ആണ് ഇപ്പോൾ ടൈം കോൺസ്റ്റന്റ് τ RCq 250 10 3 ഇത് കിലോ Ω ആണ് അതിനാൽ Ω ലേക്ക് പരിവർത്തനം ചെയ്യാൻ 4 10 6 4 മൈക്രോ ഫറാഡ് τ 1 സെക്കൻഡ് ആയതിനാൽ vt യുടെ എക്സ്പ്രഷൻ vt v0 e t τ ഇത് 20 e t വോൾട്ട് ആണ് it സർക്യൂട്ടിൽ നിന്ന് നമ്മൾ മുമ്പ് കണ്ടത് vt r ആയിരിക്കും ഇത് 20 e t 250 1000 ആണ് 80 e t മൈക്രോഅമ്പിയർ നിർവചനം അനുസരിച്ച് നമുക്ക് v1 t v2 t എന്നിവയ്ക്കുള്ള പദപ്രയോഗം കണക്കാക്കാം ഈ v1 t v1 v2 എന്നിവയുടെ ധ്രുവത നോക്കുക അതിനാൽ iC iR 0 എന്ന് നമുക്കറിയാം നമ്മുടെ iC ഇവിടെ iR ന് പകരം i t എന്നത് നൽകി v1 v2 എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് ഈ iC C1 C2 എന്നിവയിലേക്ക് ഒഴുകുന്നു ഇവ രണ്ടും ശ്രേണിയിലാണ് എന്താണ് സമവാക്യം എഴുതുന്നത് it നൽകിയിരിക്കുന്നു ഈ സർക്യൂട്ട് തുല്യമായ സർക്യൂട്ടിൽ വന്നാൽ ഇത് i t ആണെന്ന് കരുതുക ഇത് iC ആണെന്ന് കരുതുക iC i t 0 അല്ലെങ്കിൽ iC i t എന്ന് എഴുതാം iC c dv dt പൊതുവേ ഇത് തുല്യമായ സർക്യൂട്ട് ആണ് എന്നാൽ നിങ്ങൾ യഥാർത്ഥ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ സ്വിച്ച് c അടയ്ക്കുമ്പോൾ ഇതാണ് i t കറന്റ് ഒഴുകുന്നത് iC ആണ് അതിനാൽ ഇവിടെയും iC it കാരണം iC i t 0 ഇത് സ്വിച്ച് അടച്ചതിനാൽ KCL പ്രയോഗിക്കുക iC i t അങ്ങനെ അതായത് iC C1 dv dt മറ്റൊന്ന് dv1 dt ആയിരിക്കും മറ്റൊന്ന് C2 dv dt വെവ്വേറെ ചെയ്യണം നിങ്ങൾ ഈ പദപ്രയോഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുക ഇത് 1 C1 0 മുതൽ t വരെ ഈ i t എക്സ്പ്രഷൻ ഉണ്ട് ഈ i t എക്സ്പ്രഷന് ഈ പദപ്രയോഗം 80e t മൈക്രോ ആമ്പിയർ 0 മുതൽ t വരെ പിന്നെ 4 അതായത് പ്രാരംഭ അവസ്ഥ v c 0 ന് 4 വോൾട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഇവിടെ 4 ഇടുന്നു നിങ്ങൾ എന്തിനാണ് 4 എഴുതുന്നത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു മനസിലാക്കാൻ ശ്രമിക്കുക ഇവിടെ 4 എന്നതിനുപകരം 4 ഇത് മനസിലാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് അല്ലാത്തപക്ഷം അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഫോറത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ചിന്തിക്കുക സമാനമായി ഈv1 t 16 e t 20 വോൾട്ട് ലളിതമാക്കിയതിനുശേഷം സമാനമായി ഇവിടെ v2 t കപ്പാസിറ്ററുകൾ മൂല്യവും അവിടെ നൽകിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾ പ്രാരംഭ മൂല്യം v20 24 വോൾട്ട് ആണ് ഇവിടെ ചിഹ്നമല്ല അടയാളം ധ്രുവീയത നോക്കൂ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുക അതിനാൽ അതിനർത്ഥം അത് ചെയ്താൽ v2 t 4 e t 20 വോൾട്ട് KVL ഉപയോഗിച്ച് v 2t നേടാനും കഴിയും KVL പ്രയോഗിക്കുകയാണെങ്കിൽ vt v1 t v2 t അല്ലെങ്കിൽ v2 t vt v1 t v2 എന്നത് 20 e t ആയതിനാൽ v1t 16e t 20 അതിനാൽ ലളിതമാക്കുകയാണെങ്കിൽ സമാനമായത് ലഭിക്കും v2 t 4 e t 20 വോൾട്ട് ഇപ്പോൾ b ഭാഗം C 1 ൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് 4 ഇവിടെ 24 ആണ് പ്രാരംഭ വോൾട്ടേജ് 4 വോൾട്ട് ഇവിടെ 24 വോൾട്ട് എന്നാൽ ഇത് നിങ്ങളോട് ഒരു ചോദ്യമാണ് ആ രണ്ടാം ഭാഗം C1 ൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജമാണ് അത് w C1 0 12 C1 v C1 02 ആണ് എല്ലാ മൂല്യങ്ങൾ നൽകിയാൽ 40 മൈക്രോ ജൂൾ ലഭിക്കും അതുപോലെ തന്നെ w b 2 0 ന് 12 C2 v C2 02 എല്ലാ മൂല്യങ്ങൾക്കും പകര൦ നൽകിയാൽ 5760 മൈക്രോ ജൂൾ ലഭിക്കും ഇപ്പോൾ 2 കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം 40 മൈക്രോ ജൂൾ 5760 മൈക്രോ ജൂൾ ചേർക്കുക അങ്ങനെ 5800 മൈക്രോ ജൂൾ ഇപ്പോൾ t ഇനിഫിനിറ്റി യിലേക്ക് പോകുമ്പോൾ v1 v1 ഇനിഫിനിറ്റി 20 വോൾട്ട് ലഭിക്കും ഒപ്പം v2 v2 ഇനിഫിനിറ്റി 20 വോൾട്ട് ലഭിക്കും അതിനാൽ എല്ലാ v1 v2 എക്സ്പ്രഷനുകളും t ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എത്രയെന്നു കാണുക 2 കപ്പാസിറ്ററുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം W c 12 5 20 10 6 400 400 എന്നാൽ ഇത് 20 2 എന്നാണ് അർത്ഥമാക്കുന്നത് 20 2 400 ഉം 20 2 ഉം 400 ആണ് 12 C1 C 2 ആണ് യഥാർത്ഥത്തിൽ 25 മൈക്രോ ഫറാഡ് അതായത് 25 10 6 400 അതിനാൽ 5000 മൈക്രോ ജൂൾ എന്നാൽ ഇവിടെ ഇത് 5800 മൈക്രോ ജൂൾ ആണ് ഈ രണ്ടിന്റെയും വ്യത്യാസമുണ്ട് 800 മൈക്രോ ജൂൾ ആ 250 കിലോ Ω റെസിസ്റ്ററിലേക്ക് വിതരണം ചെയ്യുന്ന മൊത്തം ഊർജ്ജം W rഇൻഫിനിറ്റി 0 മുതൽ ഇൻഫിനിറ്റി p t dt വരെയാണ് അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ p t v i ഇത് v i ഇത് മൈക്രോ ജൂൾ ആണ് 0 മുതൽ ഇനിഫിനിറ്റി വരെ 1600 8e 2 t മൈക്രോ ജൂൾ 800 മൈക്രോ ജൂൾ അതായത് bc ലഭിച്ച ഫലത്തെ താരതമ്യം ചെയ്യുമ്പോൾ 800 മൈക്രോ ജൂൾ 5800 5000 ജൂൾ 800 മൈക്രോ ജൂൾ ഇക്വിവാലെന്റ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഈ ഊർജ്ജം 12 4 മൈക്രോഫറാഡ് 20 2 ആണ് ഇത് 800 മൈക്രോ ജൂൾ ആണ് അതിനാൽ ഈ 800 മൈക്രോ ജൂൾ യഥാർത്ഥത്തിൽ ആർ റെസിസ്റ്ററിൽ വ്യാപിക്കുന്നു ഈ കപ്പാസിറ്റർ യഥാർത്ഥത്തിൽ സീരീസ് കണക്റ്റു ചെയ്ത കപ്പാസിറ്ററിന്റെ ടെർമിനൽ സ്വഭാവം പ്രവചിക്കുന്നു ഇക്വിവാലെന്റ കപ്പാസിറ്ററിൽസംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 250 കിലോ Ω റെസിസ്റ്ററിലേക്ക് വിതരണം ചെയ്യുന്ന ഊർജ്ജമാണ് ഈ പ്രശ്നം ഇത് ഒരു നല്ല പ്രശ്നമാണ് അതിനാൽ ഈ വീഡിയോയിൽ എന്താണ് ചെയ്തതെന്ന് നോക്കുക ഇവയെല്ലാം മനസിലാക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടിവരില്ല